ഫോറിയർ സീരീസ് ഫോർ ഈവൻ ആൻഡ് ഓട് ഫംഗ്ഷൻസ് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് II ലെ ലക്ചർലേക്ക് സ്വാഗതം ഇത് ഓട്ഈവൻ ഫംഗ്ഷനുകൾക്കായി ഫോറിയർ സീരീസിലെ ലക്ചർ നമ്പർ 36 ആണ് അതിനാൽ ഈ ലക്ചറിൽ നമ്മൾ ആദ്യം ഓട്ഈവൻ ഫംഗ്ഷനുകൾ എന്താണെന്ന് ചർച്ചചെയ്യും തുടർന്ന് ഫൊറിയർ കോഫിഫിഷ്യന്റുകളുടെ മൂല്യനിർണ്ണയം നടത്തും തുടർന്ന് ഫോറിയർ സീരീസിന്റെ ഓട്ഈവൻ ഫംഗ്ഷനുകൾ കണ്ടെത്തും തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഓട് അല്ലെങ്കിൽ ഈവൻ ആണെങ്കിൽ അനുബന്ധ ഫോറിയർ സീരീസ് ലളിതമാകുമെന്ന് മുമ്പത്തെ ഒരു ലെക്ചറിൽ നമ്മൾ ഇതിനകം ചർച്ച ചെയ്തിട്ടുണ്ട് അതിനാൽ ഇതിന് സൈൻ പദങ്ങളോ കൊസൈൻ പദങ്ങളോ മാത്രമേ ഉണ്ടാകൂ അതിനാൽ ഇപ്പോൾ ഓട് ഈവൻ ഫംഗ്ഷനിലേക്ക് വരുമ്പോൾ ഒരു ഫംഗ്ഷനെ നമ്മൾ ഈവൻ എന്ന് പറയുന്നുവെങ്കിൽ നമുക്ക് ഈ വ്യവസ്ഥ എല്ലാ 𝑥 നും ഉണ്ടെങ്കിൽ 𝑓𝑎 − 𝑥 𝑓𝑎 𝑥 ആണ് അപ്പോൾ അതിനെ ഈവൻ ഫംഗ്ഷൻ എന്ന് പറയപ്പെടുന്നു ഫംഗ്ഷൻ ഒരു ഈവൻ ഫംഗ്ഷൻ ആണെന്ന് നമ്മൾ വിളിക്കുന്നു മറുവശത്ത് നമുക് 𝑓𝑎 − 𝑥 −𝑓𝑎 𝑥 ആണെങ്കിൽ പോയിന്റിനെക്കുറിച്ചുള്ള ഒരു ഓട് ഫംഗ്ഷനെ നമ്മൾ വിളിക്കും അത് എല്ലാ 𝑥 നുമുള്ളതാണ് അതിനാൽ അത് ഓട് ഫംഗ്ഷൻ ആണ് അതിനാൽ സാധാരണയായി പല ഉദാഹരണങ്ങളിലും ഇത് വെറും 0 ആണെന്ന് നമ്മൾ കാണും അതിനാൽ നമുക്ക് 𝑓−𝑥 𝑓𝑥 ഈവൻ ഫംഗ്ഷനും 𝑓−𝑥 −𝑓𝑥 ഓട് ഫംഗ്ഷനുകൾ ക്ക് അപ്പോൾ 𝑎 0 അങ്ങനെ നമ്മൾ സംസാരിക്കുമ്പോൾ 𝑥 0 അതിനാൽ y ആക്സിസ് അതിനാൽ ഈ ഈവൻ അല്ലെങ്കിൽ ഓട് ഫംഗ്ഷനുകളുടെ ഒരു സ്വത്ത് ഉണ്ട് കാരണം രണ്ടോ ഈവൻ രണ്ടോ ഓട് ഫംഗ്ഷനുകളുടെ ഫലം വീണ്ടും ഒരു ഇരട്ട ഫംഗ്ഷനാണ് കാരണം ആ ′ ′ ചിഹ്നമാണ് അതിനാൽ ′ − ′ കൊണ്ട് ഗുണിച്ചാൽ വീണ്ടും ′ ′ ആണ് അതിനാൽ നമ്മൾ രണ്ട് ഈവൻ ഫംഗ്ഷനുകൾ എടുക്കുകയാണെങ്കിൽ ഈ പ്രോപ്പർട്ടി നമുക്കുണ്ട് അവയുടെ പ്രോഡക്റ്റ് ഒരു ഈവൻ ആയിരിക്കും അല്ലെങ്കിൽ നമ്മൾ രണ്ട് ഓട് ഫംഗ്ഷനുകൾ എടുക്കുകയാണെങ്കിൽ അവയുടെ പ്രോഡക്റ്റ് ഒരു ഈവൻ ഫംഗ്ഷനായിരിക്കും അതിനാൽ ആ വസ്തു കൃത്യമായി ഫൊറിയർ കോഎഫീഷ്യന്റ് വിലയിരുത്തുന്നതിന് ഉപയോഗിക്കും കൂടാതെ ഒരു ഈവൻ ഫംഗ്ഷന്റെയും ഓട് ഫംഗ്ഷന്റെയും പ്രോഡക്റ്റ് ഒരു ഓട് ഫംഗ്ഷനാണ് അതിനാൽ നമ്മൾ ക്ക് പ്രോഡക്റ്റ്ണ്ടെങ്കിൽ ഒരു ഫംഗ്ഷൻ തുല്യമാണ് മറ്റൊന്ന് ഓട് ആണ് അങ്ങനെയാണെങ്കിൽ പ്രോഡക്റ്റ് വീണ്ടും ഓട് ഫംഗ്ഷനായിരിക്കും അതിനാൽ ഈവൻ ഓട് ഫംഗ്ഷനുകളുടെ ഈ സവിശേഷതകൾ ഉള്ളതിനാൽ അത്തരം ഫംഗ്ഷനുകൾ ക്കായി നമ്മൾ ഇപ്പോൾ ഫൊറിയർ കോഎഫീഷ്യന്റ്കളെ വിലയിരുത്തുകയോ ലളിതമാക്കുകയോ ചെയ്യും അതിനാൽ ഈ an ഇന്റഗ്രൽ 1𝜋 πf cos nx dx നൽകിയതായി കരുതുക ലളിതമായി വീണ്ടും നമ്മൾ ഇത് പരിഗണിക്കുന്നു 𝜋 മുതൽ 𝜋 വരെ എന്നാൽ −𝐿 മുതൽ 𝐿 വരെ ഉള്ളതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് പിന്നെ cos 𝑛𝜋𝑥𝐿 കൂടാതെ 1𝐿 പുറത്തുണ്ട് അതിനാൽ ലളിതമായി നമ്മൾ സംസാരിക്കുന്നത് −𝜋 മുതൽ 𝜋 വരെയുള്ള ഇന്റെർവെല്ലിനെക്കുറിച്ചാണ് അതിനാൽ ഈ ഫംഗ്ഷൻ 𝑓𝑥 ഒരു ഈവൻ ഫംഗ്ഷനാണെങ്കിൽ എന്തു സംഭവിക്കും Cos ഒരു ഈവൻ ഫംഗ്ഷനാണ് അതിനാൽ ഇവിടെ cos nx ഈവൻ തുല്യമാണ് ഈ ഫംഗ്ഷൻ 𝑓𝑥 ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ പ്രോഡക്റ്റ് വീണ്ടും തുല്യമാണ് ആ കേസിൽ ഇവിടെ ഇന്റെഗ്രേണ്ട് മുഴുവൻ ഇന്റെഗ്രേണ്ടും ഒരു ഈവൻ ഫംഗ്ഷനാണ് അതിനാൽ ഈ ഇന്റഗ്രൽ−π മുതൽ വരെ ഇന്റഗ്രൽ 0 മുതൽ 2 വരെ എഴുതാം അതിനാൽ 2 π പുറത്ത് വരും അതിനുശേഷം 𝑓 ഈവൻ തുല്യമാകുമ്പോൾ നമുക്ക് ഇന്റഗ്രൽ 2 π0fxcos nx dx ഉണ്ട് എപ്പോഴാണ് കൂടാതെ 𝑓ഓട് ആണെങ്കിൽ വീണ്ടും നമുക്ക് Cos nx ഈവൻ ഉണ്ട് അതിനാൽ പ്രോഡക്റ്റ് വീണ്ടും ഓട് ആണ് അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രൽ π മുതൽ π വരെ ഈ ഇന്റഗ്രലിന്റെ മൂല്യം 0 ആയിരിക്കും അതിനാൽ ഒരു ഓട് ഫംഗ്ഷനാണെങ്കിൽ ഏകദേശം 0 ഈ ഇന്റഗ്രൽ പൂജ്യമായിത്തീരും അതായത് 𝑎n′s 0 ആയിത്തീരും എന്നാണ് കൂടാതെ ഒരു ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ ഈ ലളിതവൽക്കരിച്ച ഇന്റഗ്രലിന്റെ സഹായത്തോടെ നമുക്ക് 𝑎𝑛′s കണക്കാക്കാം അതിനാൽ ഇപ്പോൾ ഈ ഇന്റഗ്രൽ 0 ൽ നിന്ന് എന്നതിന് പകരം വ്യത്യാസപ്പെടുന്നു ഇപ്പോൾ സമാനമായ സാഹചര്യം സംഭവിക്കുന്നു അതിനാൽ 𝑓𝑥 ഈവനാണെങ്കിൽ അനുബന്ധ സൈൻ ഇവിടെ ഓട് ആണ് അതിനാൽ ഇന്റഗ്രൻഡ് ഓട് ആണ് ഈ കേസിൽ ഇന്റഗ്രൽ 0 ആയിത്തീരും അതിനാൽ 𝑓 ഈവൻ തുല്യമാകുമ്പോൾ ഇന്റഗ്രൽ 𝑏n അല്ലെങ്കിൽ കോഎഫീഷ്യന്റ് bns ന്റെ ഫോറിയർ കോഎഫീഷ്യന്റ് 0 ആയി മാറും കൂടാതെ മറ്റൊന്ന് ഇങ്ങനെ ലളിതമാക്കും 20f sin nx dx അതിനാൽ നമുക്ക് ഇവിടെയുള്ളത് ഒരു ഫംഗ്ഷൻ ഓടോ ഫംഗ്ഷൻ ഈവാനോ ആണെങ്കിൽ അനുബന്ധ ഫോറിയർ സീരീസിന് ഒന്നുകിൽ bn മാത്രമേ ഉണ്ടാകൂ അല്ലെങ്കിൽ 𝑎𝑛 മാത്രമേ ഉണ്ടാകൂ അതിനാൽ എപ്പോൾ ആണ് 𝑓 ഈവൻ ആവുന്നത് അപ്പോൾ 𝑎ns കോഎഫീഷ്യന്റ് മാത്രമേ ലഭിക്കൂ ഓട് ആവുമ്പോൾ നമുക്ക് bns കോഎഫീഷ്യന്റ് ലഭിക്കും കൂടാതെ അതിനനുസൃതമായി ഫൊറിയർ സീരീസ് ലളിതമാക്കും കാരണം ഈവന്റെ കാര്യത്തിൽ നമുക്ക് 𝑎ns മാത്രമുള്ളപ്പോൾ നമുക്ക് ഫൊറിയർ സീരീസിൽ Cos മാത്രമേയുള്ളൂ ഫംഗ്ഷൻ ഒരു ഓട് ഫംഗ്ഷനാകുമ്പോൾ നമുക്ക് bns മാത്രമേ ലഭിക്കൂ അതിനാൽ ഫൊറിയർ സീരീസിൽ സൈൻ പദങ്ങൾ മാത്രമേ അടങ്ങിയിട്ടുള്ളൂ അതിനാൽ ഇപ്പോൾ ഈവനും ഓടും ഫംഗ്ഷനുകളുടെ പശ്ചാത്തലത്തിൽ ഫോറിയർ സീരീസിന്റെ ലളിതവൽക്കരണം നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നു അതിനാൽ ഈ ഇന്റർവെൽ−𝜋 𝜋 ൽ 𝑓 ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണെന്ന് നമ്മൾ അനുമാനിക്കുന്നു വീണ്ടും എളുപ്പത്തിനായി നമ്മൾ −𝜋 𝜋 എടുക്കുന്നു ഈ ഫലങ്ങളെല്ലാം ഒരു പൊതു ഇന്റർവെൽ−𝐿 𝐿 നു വേണ്ടി വിപുലീകരിക്കാവുന്നതാണ് അതിനാൽ ആ കേസിൽ 𝑓 ഒരു ഇരട്ട ഫംഗ്ഷനാണെങ്കിൽ ഫോറിയർ സീരീസ് താഴെ പറയുന്ന ലളിതമായ രൂപം എടുക്കുന്നു അതിനാൽ ഇത് ഒരു ഈവൻ ഫംഗ്ഷനാണെങ്കിൽ നമുക് 𝑎𝑛′𝑠 മാത്രമേയുള്ളൂ അതാണ് ഫോറിയർ കോഎഫീഷ്യന്റ് 𝑎n′𝑠 നിലനിൽക്കുന്നത് 𝑏n′𝑠 0 ആകും അതിനാൽ ഫൊറിയർ സീരീസിലെ cos നിബന്ധനകൾ മാത്രമേ നമ്മൾ കാണൂ അതിനാൽ ഫൊറിയർ സീരീസ് 𝑎02 n1an cos nx ആയി കൊസൈൻ പദങ്ങൾ മാത്രമുള്ളതാണ് ഇവിടെ ഈ 𝑎𝑛 ഇന്റഗ്രൽ 2 𝜋0f cos nx dx ഉപയോഗിച്ച് കണക്കാക്കാം കൂടാതെ അത്തരം ഒരു സീരീസിനെ കോസിൻ സീരീസ് എന്ന് വിളിക്കുന്നു കാരണം ഈ സീരീസിൽ നമുക്ക് കൊസൈൻ പദങ്ങൾ മാത്രമേയുള്ളൂ അതിനാൽ അത്തരം ഒരു സീരീസ് യെ നമ്മൾ കൊസൈൻ സീരീസ് എന്ന് വിളിക്കുന്നു 𝑓 ഒരു ഓട് ഫംഗ്ഷനാണെങ്കിൽ ഫോറിയർ സീരീസ് വീണ്ടും ലളിതമാക്കും 𝑓 ഓട് ആയതിനാൽ bns മാത്രമേ നിലനിൽക്കൂ എല്ലാ 𝑎n′𝑠 ഉം 0 ആയിത്തീരും നമുക്ക് സൈൻ പദങ്ങൾ മാത്രമേ ഉണ്ടാകൂ അതായത് n1bn sin nx എന്നത് ഫോറിയർ സീരീസ് ആയിരിക്കും കൂടാതെ നമുക്ക് ലളിതമാക്കിയ ഫോർമുലയുടെ സഹായത്തോടെ 𝑏n കണക്കാക്കാൻ കഴിയും ഇന്റഗ്രൽ 0 ൽ നിന്ന് 𝜋 വരെ പോകുന്നു അവിടെ ഒരു ഘടകം 2 ഉണ്ട് അതിനാൽ 𝑏𝑛 2π0 f sin nx dx ആകും അതിനാൽ നമുക് പൊതു ഇന്റർവെൽ ഉള്ളപ്പോൾ ഈ ഫലങ്ങൾ പരിഗണിക്കാവുന്നതാണ് ഉദാഹരണത്തിന് ഇന്റർവെൽ −𝐿 𝐿 അതിനാൽ ഇവിടെ ഈ cos 𝑛𝑥 കേവലം cos 𝑛𝜋𝑥𝐿 ആയിരിക്കും ഇവിടെ ഈ ഇന്റഗ്രൽ 𝜋 എന്നതിനുപകരം നമുക്ക് വെറും 𝐿 ഉണ്ടാകും വീണ്ടും ഇവിടെ cos 𝑛𝑥 cos 𝑛𝜋𝑥𝐿 ആകും അതിനാൽ ഇത് കൂടുതൽ പൊതുവായ ഫോർമുലയായിരിക്കും അതിനാൽ ഇത് വീണ്ടും കോസൈൻ സീരീസ് ആണ് സൈൻ സീരീസിനെ സംബന്ധിച്ചിടത്തോളം അത് sin 𝑛𝑥 ൽ നിന്ന് sin 𝑛𝜋𝑥𝐿 ലേക്ക് ആവും തുടർന്ന് 𝜋 എന്നതിനുപകരം അത് 𝐿 ആയിരിക്കും തുടർന്ന് നമുക്ക് വീണ്ടും അവിടെ 𝐿 ഉണ്ടാകും കൂടാതെ ഇവിടെ വീണ്ടും sin 𝑛𝑥 നമുക്ക് sin 𝑛𝜋𝑥𝐿 ഉണ്ട് അതിനാൽ അത്തരമൊരു സീരീസ്നെ സൈൻ സീരീസ് എന്ന് വിളിക്കുന്നു അതിനാൽ ഈ മാറ്റങ്ങൾ വരുത്തപ്പെടും തുടർന്ന് യഥാക്രമം ഇരട്ടയും ഓടുമായ ഫംഗ്ഷനുകൾ ക്കായി നമുക് കൂടുതൽ പൊതുവായ ഫൊറിയർ കൊസൈൻ അല്ലെങ്കിൽ ഫൊറിയർ സൈൻ സീരീസ് ഉണ്ട് അതിനാൽ ഇപ്പോൾ ഈ ലളിതവൽക്കരണത്തെ അടിസ്ഥാനമാക്കി നമുക്ക് ചില ഉദാഹരണങ്ങൾ ചർച്ച ചെയ്യാം ഉദാഹരണത്തിന് ഇവിടെ എടുത്ത ഈ 𝑥 ഫംഗ്ഷനെ പ്രതിനിധീകരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു ഇവിടെ x 0 ≤ 𝑥 ≤ 𝜋 റേഞ്ചിൽ നൽകിയിരിക്കുന്നു 2𝜋 − 𝑥 𝜋 𝑥 ≤ 2𝜋 റേഞ്ചിൽ നൽകിയിരിക്കുന്നു അതിനാൽ ഈ ഫംഗ്ഷന്റെ ഗ്രാഫ് 0 സീരീസിൽ നോക്കുകയാണെങ്കിൽ ഉദാഹരണത്തിന് ഇവിടെ നമുക്ക് 𝜋 ഉണ്ട് തുടർന്ന് നമുക്ക് 2𝜋 ഉണ്ട് അതിനാൽ 0 മുതൽ 𝜋 വരെ ഇത് രേഖീയമായി വർദ്ധിക്കുന്നു പിന്നെ 𝜋 𝑥 ≤ 2𝜋 ൽ നിന്ന് അത് 2𝜋 − 𝑥 ആണ് അതിനാൽ ഇത് 0 ആയി കുറയുന്നു അതിനാൽ വീണ്ടും നമുക്ക് 𝜋ൽ 𝑥 𝜋 ഉണ്ട് അതിനാൽനമുക്ക് ഈ ഫംഗ്ഷൻ ഉണ്ട് അത് ഒരു തരത്തിലുള്ള പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ് 𝑥 𝜋 ന് ചുറ്റും സിമെട്രി ആണ് അതിനാൽ ഇത് 𝑥 𝜋 ന് ചുറ്റുമുള്ള ഒരു ഈവൻ ഫംഗ്ഷനാണ് പിന്നെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത ഫലം പ്രയോഗിക്കാൻ കഴിയും അതിനാൽ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഈ 𝑥 𝜋 സംബന്ധിച്ച ഒരു ഈവൻ ഫംഗ്ഷനാണ് അതിനാൽ നമുക്ക് അത് നേടാനാകും 𝑏n′𝑠 0 ആയിരിക്കും അതിനാൽ നമുക്ക് 𝑏n1𝜋02πf sin nx dx അഥവാ 1𝐿02Lf sin nxπL dx ആയിരിക്കും ഇവിടെ 𝑓 ന്റെ പീരീഡ് 2𝜋 ആണ് ഒരു കണക്കുകൂട്ടലും ഇല്ലാതെ ഇത് 0 ആയിരിക്കും നമുക്ക് 𝑏n 0 സജ്ജമാക്കാം കാരണം ഈ 𝑓 𝜋 ന് ചുറ്റുമുള്ള ഒരു ഓട് ഫംഗ്ഷനാണ് അതിനാൽ 0 മുതൽ 2𝜋 വരെയുള്ള ഇന്റഗ്രൽ 0 ആയി മാറും പിന്നെ നമ്മൾ ഈ 𝑎0 ഉം പിന്നെ 𝑎n ഉം കണക്കുകൂട്ടുന്നു അതിനാൽ 𝑎0 1𝜋02πfxdx കൂടാതെ നമുക്കറിയാം 𝑥 0 ≤ 𝑥 ≤ 𝜋 റേഞ്ചിൽ x ആണെന്നും 𝜋 𝑥 ≤ 2𝜋 റേഞ്ചിൽ 2𝜋 − 𝑥 ആണെന്നുംഅതിനാൽ നമുക്ക് ഈ ഇന്റഗ്രൽ കണക്കാക്കാം അതിനാൽ ഇവിടെ നമുക്ക് 𝑥22 ഉണ്ടാകും 𝜋22 നമുക് ലഭിക്കും പിന്നെ ഇവിടെ നമുക്ക് − 2𝜋−𝑥22 ഉണ്ടാകും അതിനാൽ വീണ്ടും നമുക്ക് π22 ലഭിക്കും കൂടാതെ അതിന്റെ ഫലമായി നമുക് 𝜋 ലഭിക്കുന്നു അതിനാൽ നമ്മൾ 𝑎0 യെ 𝜋 ആയി കണക്കുകൂട്ടി പിന്നെ നമുക്ക് 1𝜋02πf cos nx dx എന്ന ഫോർമുല ഉപയോഗിച്ച് 𝑎n കണക്കാക്കാം അതിനാൽ ഈ കേസിൽ വീണ്ടും f 𝑥 0 ≤ 𝑥 ≤ 𝜋 റേഞ്ചിൽ x ഉം 𝜋 𝑥 ≤ 2𝜋 റേഞ്ചിൽ 2𝜋 − 𝑥 ഉം ആണ് അതിനാൽ നമുക്ക് ഇവ വീണ്ടും ഇന്റഗ്രൽസ് ലളിതമാക്കാം അത് നമുക്ക് 𝑎n തരും അതിനാൽ നമുക്ക് ഇവിടെ വേഗത്തിൽ നോക്കാൻ കഴിയുമെങ്കിൽ നമുക് 𝑥 ഉണ്ട് പിന്നെ നമുക്ക് 0 മുതൽ 𝜋 വരെ sin𝑛𝑥𝑛 ഉണ്ട് 0 മുതൽ 𝜋 വരെ ′ − ′ ചിഹ്നം നൽകാം 𝑥 ന്റെ ഡിഫറെൻസിയേഷൻ 1 ആയിരിക്കും പിന്നെ നമ്മൾ വീണ്ടും sin𝑛𝑥𝑛 ഉം കൂടാതെ 𝑑𝑥 ഉം കണ്ടെത്തും അതിനാൽ ഈ സൈൻ കാരണം നമ്മൾ 𝜋 അല്ലെങ്കിൽ 0 മാറ്റിസ്ഥാപിക്കുന്നു ഇത് 0 ആയി മാറും നമുക്ക് ഇവിടെ ഫലം ഉണ്ട് അതിനാൽ വീണ്ടും ′ − ′ ചിഹ്നം ഉപയോഗിച്ച് sin 𝑛𝑥 ന്റെ കൂടുതൽ ഇന്റഗ്രേഷൻ cos𝑛𝑥𝑛 ആയിരിക്കും 0 മുതൽ 𝜋 വരെ അതിനാൽ 1𝑛 ഇതിനകം അവിടെ ഇരിപ്പുണ്ട് അതിനാൽ ഇവിടെ 𝑛2 1𝑛 അവിടെ ഉണ്ടായിരുന്നു ഒപ്പം വീണ്ടും 1𝑛 വരും ഒരു 𝜋 പുറത്ത് ഉണ്ട് അത് ഈ ഇന്റെഗ്രേലിന് പുറത്താണ് അതിനാൽ നമ്മൾ 𝜋 കൊടുക്കുമ്പോൾ −1n−1𝑛2𝜋 അത് കൃത്യമായി ഇവിടെ എഴുതിയിരിക്കുന്നു പിന്നെ സമാനമായി നമുക്ക് 2π2π xcosnx dx എന്ന രണ്ടാമത്തെ ഇന്റഗ്രൽ ഇന്റഗ്രേഷൻ ചെയ്യാൻ കഴിയും ഒപ്പം 1𝑛2 നെ പൊതുവാക്കി എടുത്ത് നമുക്ക് ഇത് കൂടുതൽ ലളിതമാക്കാം ഈ ′ − ′ ഉള്ളിൽ ഇവിടെ ക്രമീകരിക്കും അതിനാൽ ഈ ഇത് 2 തവണ മാത്രമേ ഉണ്ടാകൂ അതിനാൽ ഇത് 2𝑛2 𝜋 −1n − 1ആണ് അതിനാൽ ഈ കേസിൽ നമുക്ക് എന്താണ് 𝑎n എപ്പോൾ 𝑛 ഇവിടെ ഒരു ഈവൻ സംഖ്യയാണ് ഉദാഹരണത്തിന് 2 4 മുതലായവ അതായത് 𝑛 ഈവൻ തുല്യമാകുമ്പോൾ 𝑎n 0 ആകും 𝑛 ഓട് ആവുമ്പോൾ ഈ രണ്ട് −1 1 ആയിരിക്കും അതിനാൽ നമുക്ക് −2 ലഭിക്കും തുടർന്ന് 2 ഇതിനകം അവിടെയുണ്ട് അതിനാൽ 𝑎n − 4𝑛2π ആണ് അതിനാൽ 𝑎n കൈവശം വയ്ക്കുക ഉദാഹരണത്തിന് ഇപ്പോൾ നമുക്ക് അവയെ ഫോറിയർ സീരീസിൽ മാറ്റിസ്ഥാപിക്കാം ഇതായിരുന്നു 𝑎02 പിന്നെ ബാക്കി വരുന്നു - 4𝜋 ആയി എന്നിട്ട് നമുക്ക് ഈ 1𝑛2 പദങ്ങൾ ഉണ്ട് അതിനാൽ 0 മുതൽ 2𝜋 വരെ അതാതു കൊസൈൻ പദങ്ങളുമായി 112 132 152 മുതലായവ ഉണ്ട് അതിനാൽ അതിന്റെ ഫലമായി നമുക് കൊസൈൻ പദങ്ങൾ മാത്രമേയുള്ളൂ കാരണം ഫംഗ്ഷൻ ഒരു ഈവൻ ഫംഗ്ഷനാണ് ഇന്റർവെൽ 0 മുതൽ 2𝜋 വരെ ഈ മധ്യ ബിന്ദു 𝜋 ആണ് അതിനാൽ ഈ കേസിൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ ഇവിടെ ഈ സമ ചിഹ്നം ഉപയോഗിച്ചു എന്തുകൊണ്ടാണ് ഇവിടെ സമ ചിഹ്നം ശരിയായത് ഈ കേസിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് അതിനാൽ നിങ്ങൾ ഫംഗ്ഷൻ നോക്കുകയാണെങ്കിൽ ഇത് 0 മുതൽ 2𝜋 വരെയുള്ള മുഴുവൻ സീരീസും കണ്ടിന്യൂസ് ഫംഗ്ഷനാണ് ഇതൊരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ് കൂടാതെ 𝑓 ′ ഉണ്ട് നമുക്ക് ഡെറിവേറ്റീവ് കണക്കാക്കാം ഇതും പീസ്വേസ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ് അതിനാൽ ഫൊറിയർ സീരീസിന്റെ കൺവെർജൻസ് നമ്മൾ ഇതിനകം പഠിച്ചു നമുക്കറിയാം ഫൊറിയർ സീരീസ് ശരിക്കും ഒരേപോലെ കൺവെർജ് ചെയ്യുന്നു യൂണിഫോം കൺവെർജൻസ് ആണ് ഏറ്റവും ശക്തമായ കൺവെർജൻസ് എന്ന് നമ്മൾ ലെക്ചറിൽ ചർച്ച ചെയ്തു അതിനാൽ നമുക്ക് ഈ തുല്യത അവിടെ എഴുതാം അതായത് ഈ സീരീസിലെ 𝑥 ന്റെ ഏത് മൂല്യത്തിനും അവസാന പോയിന്റുകൾ ഒഴികെ സീരീസ് ഫംഗ്ഷൻ 𝑥 ലേക്ക് കൺവെർജ് ചെയ്യും പക്ഷേ വീണ്ടും നമ്മൾ വിപുലീകരണം നോക്കുകയാണെങ്കിൽ ആനുകാലിക വിപുലീകരണമെന്ന നിലയിൽ ഈ ഫംഗ്ഷന്റെ അവസാന പോയിന്റുകളിലും ഫംഗ്ഷൻ തുടരുന്നു അതിനാൽ അവസാന പോയിന്റുകൾ ഉൾപ്പെടെ x ന്റെ എല്ലാ മൂല്യങ്ങൾക്കും ഈ സമത്വം ഉപയോഗിക്കുന്നതിൽ ഒരു പ്രശ്നവുമില്ല കൂടാതെ ഇപ്പോൾ ഫംഗ്ഷന്റെ ഫോറിയർ സീരീസ് നിർണ്ണയിക്കാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു ഉദാഹരണം ഞങ്ങൾ പരിഗണിക്കും ഇന്റർവെൽ −𝜋 𝜋 യിൽ 𝑓𝑥 𝑥2 ന് തുല്യമാണ് എന്നിട്ട് ഈ അനന്തമായ തുകകൾ ഈ അനന്തമായ തുകകളുടെ മൂല്യം കാണിക്കാൻ നമുക്ക് കൺവെർജൻസ് ഫലം ഉപയോഗിക്കാം അതിനാൽ ഇവിടെ നമുക്ക് എന്താണ് ഉള്ളത് നമുക് 𝑥2 ഉണ്ട് അതിനാൽ −𝜋 𝜋 വരെയുള്ള റേഞ്ചിലെ ഈ 𝑥2 ഫംഗ്ഷൻ ഒരു ഈവൻ ആണെന്ന് നമുക്കറിയാം ഈ സീരീസ് യിലെ ഒരു ഈവൻ ഫംഗ്ഷനാണെന്ന് നമ്മൾ ക്കറിയാം −𝜋 𝜋 അതിനാൽ വീണ്ടും നമുക്ക് കൊസൈൻ സീരീസ് ലഭിക്കും അതിനാൽ 𝑏𝑛′𝑠 വീണ്ടും 0 ആയിരിക്കും കാരണം ഇത് ഒരു ഈവൻ ഫംഗ്ഷനാണ് അതിനാൽ ഈ 𝑓 ഈ ഇന്റർവെൽലെ ഒരു ഈവൻ ഫംഗ്ഷനാണ് അതിനാൽ ഈ 𝑏n′𝑠 എല്ലാ n നും 0 ആയിരിക്കും പിന്നെ നമുക്ക് 𝑎n′𝑠 കണക്കാക്കാം അതിനാൽ നമ്മൾ ആദ്യം ഇവിടെ 𝑎0 ആണ് കണക്കാക്കുന്നത് 𝑎0 1𝜋x2dx ഇത് ഇവിടെ −𝜋 ആണ് പിന്നെ നമ്മൾ ഇവിടെ ഇന്റഗ്രേറ്റ് 𝜋 മുതൽ 𝜋 വരെ നമുക് 𝑥33𝜋 ഉണ്ട് അതിനാൽ നമുക്ക് ഇത് മാറ്റിസ്ഥാപിക്കാം അത് ഇപ്പോൾ ചേർക്കും അതിനാൽ ഈ 𝑎0 ന്റെ ഫലം നമുക്ക് 2𝜋23 ആയി ലഭിക്കും പിന്നെ നമുക്ക് 𝑎n ഉം പൊതുവായി 1π πx2cos nx dx ഉം ലഭിക്കും അതിനു കാരണം ഈ cos nx ഒരു ഈവൻ ഫംഗ്ഷനാണ് x2 ഒരു ഈവൻ ഫംഗ്ഷനാണ് അതിനാൽ നമുക്ക് ഈ ഇന്റഗ്രൽ 2π0x2cosnx dx ആയി എഴുതാം അതിനാൽ വീണ്ടും ഈ പ്രോഡക്റ്റ് നിയമത്തിന്റെ ആശയവുമായി നമുക്ക് ഈ ഇന്റഗ്രേഷൻ നടത്താൻ കഴിയും അതിനാൽ ഇവിടെ നമുക്ക് 𝑥2 ഉണ്ട് നമുക്ക് 𝑥2 ഉണ്ട് തുടർന്ന് ഈ cos 𝑛𝑥 sin 𝑛𝑥𝑛 ഉം ആയി ഇന്റഗ്രേറ്റ് ചെയ്യും അപ്പോൾ നമുക്ക് വീണ്ടും − 1𝑛 ഉണ്ട് കാരണം cos 𝑛𝑥 ന്റെ ഇന്റഗ്രേഷൻ sin 𝑛𝑥𝑛 ആയിരിക്കും അതിനാൽ 1𝑛 പിന്നെ 0 മുതൽ 𝜋 വരെയുള്ള ഇന്റഗ്രൽ ഈ ഫംഗ്ഷൻ മൂല്യം 𝑥2 ന്റെ ഡിഫറെൻസിയേഷൻ നമ്മൾക്കുണ്ട് അത് ഇവിടെ 2𝑥 ആണ് പിന്നെ നമ്മൾ 𝜋 ഇട്ടാലും പൂജ്യം വരുമ്പോളും ഇത് 0 ആകും അതിനാൽ ഏത് സാഹചര്യത്തിലും ഇത് പൂജ്യമാകും പിന്നെ നമുക്ക് രണ്ടാമത്തെ ഇന്റഗ്രൽ ഉം ഉണ്ട് അത് വീണ്ടും ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടതുണ്ട് അതിനാൽ ഇവിടെ അത് 𝑥 ആണ് സൈൻ കോസ് ആയിരിക്കും പിന്നെ വീണ്ടും നമുക്ക് അവിടെ x ന്റെ കോസ് ഡിഫറെൻസിയേഷൻ 1 ആകും പിന്നെ നമുക്ക് ഇവിടെ സൈൻ ഇന്റഗ്രേറ്റ് ചെയ്യാൻ കഴിയും അത് എങ്ങനെയെങ്കിലും 0 ക്കും π ക്കും ഇടയിൽ 0 ആകും അതിനാൽ മാത്രം ഈ പദം കാരണം നമുക്ക് മൂല്യം ലഭിക്കും അതിനാൽ 𝑥 𝜋 ആയിരിക്കുമ്പോൾ നമുക്ക് 𝜋 ഉം cos 𝑛𝜋𝑛 ഉം ലഭിക്കുമ്പോൾ cos 𝑛𝜋 −1n ആയിരിക്കും കൂടാതെ പുറത്ത് ഇരിക്കുന്ന ഒരു ഘടകം 4𝑛𝜋 ഉണ്ട് അതിനാൽ നമ്മൾ ക്ക് എന്താണ് ഉള്ളത് ഈ 𝜋 റദ്ദാക്കപ്പെടും നമ്മൾ ക്ക് 4 −1n𝑛2 ഉണ്ട് പിന്നെ ഈ 𝑛2 അവിടെയുണ്ട് അതിനാൽ നമ്മൾ ക്ക് 4−1nn2 ഉണ്ട് ഫൊറിയർ കോഎഫിഷ്യന്റിന്റെ മൂല്യം 𝑎n ഉം എല്ലാ 𝑏n′𝑠 ഉം 0 ആണ് അതിനാൽ 𝑏n′𝑠 0 ഉള്ള ഫൊറിയർ സീരീസിൽ നമുക്ക് 𝑎0 𝑎n′𝑠 𝑏n′𝑠 എന്നിവക്ക് മാറ്റിസ്ഥാപിക്കാം അതിനാൽ ഈ കോസിൻ സീരീസ് നമുക്ക് ലഭിക്കും കാരണം സീരീസിൽ സൈൻ പദം അടങ്ങിയിരിക്കില്ല വീണ്ടും നമുക്ക് ഈ തുല്യത ഇവിടെ വയ്ക്കാം കാരണം ഈ സീരീസ് കൺവെർജ് ചെയ്യും പൂർണമായും ഒരേപോലെയും കൺവെർജ് ചെയ്യും കാരണം ഈ 𝑥2 ഇവിടെ −𝜋 മുതൽ 𝜋 വരെയും അതിന്റെ വിപുലീകരണത്തിലും നമ്മൾ നിർവ്വചിച്ചിരിക്കുന്നു അതിനാൽ എല്ലാം മാറും എല്ലാം കണ്ടിന്യൂസ് ആയി മാറും അതിനാൽ അവസാന പോയിന്റുകൾ ഉൾപ്പെടെ അതിന്റെ ആനുകാലിക വിപുലീകരണത്തിലെ ഫംഗ്ഷൻ അത് എല്ലായിടത്തും കണ്ടിന്യൂസ് ആയി തുടരും അതിനാൽ ഈ −𝜋 മുതൽ 𝜋 വരെ അല്ലെങ്കിൽ മുഴുവൻ ആക്സിസിലും നമുക്ക് ഈ ആനുകാലിക വിപുലീകരണം ഉണ്ടാകുമ്പോൾ x2 മുഴുവൻ യഥാർത്ഥ ആക്സിസിലുടനീളം നീട്ടുക മാത്രമല്ല ഈ −𝜋 മുതൽ 𝜋 വരെയാകുകയും വേണം ഇത് നീട്ടുക ഇത് ഒരു ഫംഗ്ഷനും അതിന്റെ പിരീഡും ആയി നമ്മൾ കരുതണം അതിന്റെ ഫൊറിയർ സീരീസിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന ഫോറിയർ സീരീസ് 𝑥 ∈ ℝ ന്റെ ഏത് പോയിന്റിനും കൺവെർജ് ചെയ്യും അതിനാൽ ഇവിടെ നമുക്ക് −𝜋 മുതൽ 𝜋 വരെ x ഉണ്ട് ഈ സീരീസ് അതിർത്തി പോയിന്റുകൾ ഉൾപ്പെടെ ആ പ്രദേശത്ത് നൽകിയിരിക്കുന്ന ഫംഗ്ഷൻ 𝑥2 ലേക്ക് ഒത്തുചേരും അതിനാൽ ഇപ്പോൾ ഈ സീരീസിൽ ഉദാഹരണത്തിന് 𝑥 0 പകരം വച്ചാൽ cos 0 1 ആകും നമുക്ക് ആവശ്യമുള്ള സീരീസ് അല്ലെങ്കിൽ ആവശ്യമുള്ള സീരീസിന്റെ തുക ലഭിക്കും അതിനാൽ നമുക് അവിടെ 0 ഉണ്ട് 𝜋2n14 1nn2 ഈ രൂപത്തിൽ എഴുതാം അതിനാൽ നമുക് n1 1nn2 ഉണ്ട് മൂല്യം 𝜋212 ആണ് അതിനാൽ ഇപ്പോൾ നമ്മൾ 𝑥 𝜋 പകരം വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സീരീസിന് എന്ത് മൂല്യമാണ് വേണ്ടതെന്ന് നോക്കണം തുടർന്ന് 𝑥 ന്റെ ഏത് മൂല്യങ്ങൾക്ക് നമുക്ക് ആ സീരീസ് ലഭിക്കും അതിനാൽ ഇവിടെ നമ്മൾ 𝑥 𝜋 ഇടും അതിനാൽ ഇവിടെ നമുക്ക് 𝜋23 n14 12nn2 എല്ലാ പോസിറ്റീവ് പദങ്ങളും വരും അതിനാൽ ഈ സീരീസാണ് നമ്മൾ ഇവിടെ വിലയിരുത്തേണ്ടത് 1n2 മൂല്യം 𝜋26 വരുന്നു അതിനാൽ ഈ കൺവെർജെൻസ് സിദ്ധാന്തം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു നല്ല ആപ്ലിക്കേഷനാണിത് വിവിധ സീരീസ്കളുടെ മൂല്യം നമുക്ക് ലഭിക്കും ഈ കൺവെർജെൻസ് ഫലത്തിന്റെ സഹായത്തോടെ നമുക്ക് നിരവധി സങ്കീർണ്ണമായ സീരീസ്കൾ ലഭിക്കുമെന്ന് അടുത്ത കുറച്ച് പ്രഭാഷണങ്ങളിൽ നമ്മൾ വീണ്ടും നിരീക്ഷിക്കും ഇവിടെ കൂടുതൽ അനുമാനം നമുക്ക് ഊഹിക്കാൻ കഴിയുമെങ്കിൽ ഈ 𝑓 ഇന്റഗ്രേബ്ൾ ആണെന്ന് കരുതുക തുടർന്ന് ഞങ്ങളുടെ ലക്ഷ്യം എഴുതുക എന്നതാണ് ഉദാഹരണത്തിന് ഫോറിയർ സൈൻ അല്ലെങ്കിൽ കൊസൈൻ സീരീസ് അതിനാൽ ഇവിടെ സാഹചര്യം ഇപ്പോൾ വ്യത്യസ്തമാണ് 𝑓 നൽകിയിട്ടുണ്ടെന്ന് കരുതുക ഇത് തുടർച്ചയായി തുടരുകയോ അല്ലെങ്കിൽ ഇന്റഗ്രേറ്റ് ചെയ്യുകയോ ചെയ്യാം രണ്ട് വഴികളിലൂടെയും നമുക്ക് ഫൊറിയർ സീരീസ് എഴുതാം അതിനാൽ ഈ 𝑓 ഡൊമെയ്നിൽ ഇന്റഗ്രേബ്ൾ ആണെന്ന് കരുതുക 0 𝐿 ഉദാഹരണത്തിന് ഫോറിയർ സൈൻ അല്ലെങ്കിൽ കൊസൈൻ സീരീസ് എഴുതുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം അതിനാൽ ഇവിടെ ലക്ഷ്യം വ്യത്യസ്തമാണ് ഇപ്പോൾ നമ്മൾ ഫോറിയർ സീരീസ് മാത്രമല്ല എഴുതുന്നത് നമ്മൾ ഫോറിയർ സൈൻ അല്ലെങ്കിൽ ഫൊറിയർ കൊസൈൻ സീരീസ് എഴുതാൻ ആഗ്രഹിക്കുന്നു പിന്നെ ഈ കേസിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമുക്ക് ഈ 𝑓 ഒരു ഈവൻ ഓട് പ്രവർത്തനത്തിലേക്ക് നീട്ടാം ഇതിന്റെ വിശദാംശങ്ങൾ അടുത്ത ലെക്ചറിൽ വിശദീകരിക്കും അതിനാൽ ഈവൻ ഓട് പ്രവർത്തനത്തോടെ നമ്മൾ ചെയ്ത കാര്യങ്ങളുമായി കുറച്ച് അവലോകനവും ബന്ധവും നൽകാം അതിനാൽ നമുക്ക് 𝑓 ഈവൻ ഓട് ഫംഗ്ഷനിലേക്ക് വിപുലീകരിക്കാൻ കഴിയും അതായത് ഒരു പുതിയ ഫംഗ്ഷൻ 𝑥 നിർവ്വചിക്കുന്നു അവിടെ നൽകിയിരിക്കുന്ന 𝑓𝑥 ഇതിനകം തന്നെ ഉണ്ട് ഇന്റർവെൽ യിൽ 0 ≤ 𝑥 𝐿 കൂടാതെ −𝐿 ≤ 𝑥 𝐿 ൽ നമ്മൾ ഫംഗ്ഷന്റെ ഓട് വിപുലീകരണം ഉണ്ടാക്കി അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ഈ പുതിയ ഫംഗ്ഷൻ 𝑥 ആയി വീണ്ടും അവതരിപ്പിക്കാം അതേ ഫംഗ്ഷൻ നൽകിയിരിക്കുന്ന ഫംഗ്ഷൻ 0 ≤ 𝑥 𝐿 ഫംഗ്ഷൻ 0 ≤ 𝑥 𝐿 ൽ നിർവ്വചിച്ചിരിക്കുന്നു പിന്നെ −𝐿 ≤ 𝑥 𝐿 ൽ നമ്മൾ ഈവൻ വിപുലീകരണം ഉണ്ടാക്കി അതിനാൽ ഈ 𝑥 ഒരു ഈവൻ പ്രവർത്തനമായി മാറി അതിനാൽ 𝑥 ഒരു ഈവൻ ഫംഗ്ഷനാണ് ℎ𝑥 ഒരു ഓട് ഫംഗ്ഷനാണ് ഇത് ഒരു ഓട് ഫംഗ്ഷനാണ് അതിനാൽ മൊത്തത്തിൽ നൽകിയിരിക്കുന്ന ഫംഗ്ഷന്റെ സാധുത 0 മുതൽ 𝐿 വരെ ഉള്ളിടത്ത് നമുക്ക് ഫംഗ്ഷന്റെ അത്തരം വിപുലീകരണങ്ങൾ ചെയ്യാൻ കഴിയും ഇവിടെയും നമുക്ക് 0 മുതൽ 𝐿 വരെയുള്ള ഫംഗ്ഷൻ ഉണ്ട് അതിനാൽ നമുക്ക് ഇനിപ്പറയുന്ന രീതിയിൽ ചിന്തിക്കാം ഇവിടെ ഒരു ഫംഗ്ഷൻ 𝑥 ഉണ്ടെന്ന് കരുതുക 0 മുതൽ ചില സീരീസ് കൾക്ക് നൽകിയിരിക്കുന്നു 0 മുതൽ 1 വരെഇത് നിർവ്വചിക്കുന്നു പിന്നെ രണ്ട് സാധ്യതകളുണ്ട് നിരവധി സാധ്യതകളുണ്ടാകാം എന്നാൽ ഇവിടെ നമ്മൾ ഫംഗ്ഷൻ വിപുലീകരിക്കുന്നു അങ്ങനെ ഫംഗ്ഷൻ ℎ𝑥 ആകുകയും ഓട് പ്രവർത്തനമായി മാറുകയും ചെയ്യും അതിനാൽ നമ്മൾ അതിന്റെ ഫോറിയർ സീരീസ് എഴുതുമ്പോൾ ℎ𝑥 ന്റെ ഫൊറിയർ സീരീസിന് സൈൻ എന്ന പദം മാത്രമേ ഉണ്ടാകൂ കാരണം ഇത് ഒരു ഓട് ഫംഗ്ഷനാണ് അതിനാൽ ℎ𝑥 ന്റെ ഫൊറിയർ സീരീസ് യ്ക്ക് സൈൻ പദങ്ങൾ മാത്രമേ ഉണ്ടാകൂ ഇതിന് ഒരു സൈൻ സീരീസ് മാത്രമേ ഉണ്ടാകൂ കൂടാതെ നമ്മൾ ഇവിടെ 𝑥 എന്നത് വിപുലീകരിക്കുമ്പോൾ ഇത് ഒരു ഈവൻ ഫംഗ്ഷനാണ് കൂടാതെ നമ്മൾ 𝑔𝑥 ന്റെ ഫൊറിയർ സീരീസ് എഴുതുമ്പോൾ ആ ഫൊറിയർ സീരീസിൽ കൊസൈൻ പദങ്ങൾ മാത്രമേ അടങ്ങിയിട്ടുള്ളൂ അതിനാൽ നമുക്ക് ℎ𝑥 ന്റെ വികാസം ഉണ്ട് സൈനിന്റെ കാര്യത്തിൽ നമുക്ക് കൊസൈനിന്റെ കാര്യത്തിൽ 𝑔𝑥 ന്റെ വികാസം ഉണ്ട് എന്നാൽ 0 മുതൽ 𝐿 വരെയുള്ള ഇന്റർവെൽ യിൽ ഫംഗ്ഷൻ നൽകിയിട്ടുണ്ട് നമ്മൾ ക്ക് ഒരേ ഫംഗ്ഷൻ ഉണ്ട് 𝑥 ഈ കേസിൽ സൈൻ സീരീസ് പ്രതിനിധീകരിക്കും ഈ കേസിൽ ഇത് പ്രതിനിധീകരിക്കും കൊസൈൻ സീരീസ് കൂടാതെ ഇത് രസകരമാണോ അതിനാൽ അടുത്ത ലെക്ചറിൽ നമ്മൾ പകുതി സീരീസ് സൈൻ അല്ലെങ്കിൽ പകുതി സീരീസ് യിലുള്ള കൊസൈൻ സീരീസ് പഠിക്കും ഇത് അവസാനത്തെ ഉദാഹരണമാണ് അതിനാൽ ഈ ലെക്ചറിൽ ഞാൻ ഈ 𝑓𝑥 𝑥 എടുത്തിട്ടുണ്ട് പ്രദേശത്ത് നിർവചിച്ചിരിക്കുന്നത് −2 𝑥 2 കൂടാതെ അടുത്ത പ്രശ്നത്തിലും അതേ ഉദാഹരണം ഞാൻ പരിഗണിക്കും ഇന്റർവെൽ 0 𝑥 2 ആയി എടുക്കും അതിനാൽ അടുത്ത ഇന്റർവെൽ ഈ ഇന്റർവെൽ 0 𝑥 2 എടുക്കുമ്പോൾ −2 𝑥 0 നിന്ന് ഫംഗ്ഷൻ വിപുലീകരിച്ച് അതിന്റെ സൈൻ സീരീസ് അല്ലെങ്കിൽ കൊസൈൻ സീരീസ് എഴുതുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം അതിനാൽ −2 𝑥 0 ഒരു ഈവൻ വിപുലീകരണമായി നമ്മൾ വിപുലീകരിക്കുകയാണെങ്കിൽ നമുക്ക് കൊസൈൻ സീരീസ് ഉണ്ടാകും കൂടാതെ ആ ഫംഗ്ഷൻ −2 𝑥 0 ഓട് പ്രവർത്തനമായി നീട്ടുകയാണെങ്കിൽ നമുക്ക് സൈൻ സീരീസ് മാത്രമേ ലഭിക്കൂ അതിനാൽ അടുത്ത ലെക്ചറിൽ നമ്മൾ അതിനെക്കുറിച്ച് കൃത്യമായി സംസാരിക്കും എന്നാൽ ഇപ്പോൾ ഇവിടെ എന്താണ് ഫംഗ്ഷൻ −2 𝑥 2 നിർവ്വചിച്ചിരിക്കുന്നു നമ്മൾ ഫോറിയർ സീരീസ് എഴുതാൻ ആഗ്രഹിക്കുന്നു അതിനാൽ ഇവിടെ സൈൻ അല്ലെങ്കിൽ കൊസൈൻ പോലുള്ള ഒരു പ്രത്യേക സീരീസ് നമ്മൾ ലക്ഷ്യമിടുന്നില്ല ഇവിടെ അതിന്റെ ഫോറിയർ സീരീസ് എഴുതാൻ നമ്മൾ ആഗ്രഹിക്കുന്നു പക്ഷേ സ്വാഭാവികമായും നമ്മൾ ഈ പ്രവർത്തനത്തെ −2 𝑥 2 ൽ നിന്ന് നോക്കിയാൽ ഇത് ഒരു ഓട് ഫംഗ്ഷനാണ് അതിനാൽ ഇതൊരു ഓട് ഫംഗ്ഷനാണ് അപ്പോൾ സ്വാഭാവികമായും ഫോറിയർ സീരീസിന് സൈൻ പദങ്ങൾ മാത്രമേ ഉണ്ടാകൂ അതിനാൽ കൂടുതൽ വിപുലീകരണമോ മറ്റോ ഇല്ലാതെ നമ്മൾ അതിന്റെ ഫോറിയർ സീരീസ് എഴുതുകയാണെങ്കിൽ അതിൽ സൈൻ സീരീസ് മാത്രമേ ഉണ്ടാകൂ പക്ഷേ അടുത്ത ലെക്ചറിൽ അതേ ഫംഗ്ഷൻ 𝑥 𝑥 പ്രദേശത്ത് 0 𝑥 2 മാത്രമേ നൽകിയിട്ടുള്ളൂവെങ്കിൽ അതിന്റെ വിപുലീകരണം ഒരു സൈൻ സീരീസ് അല്ലെങ്കിൽ കൊസൈൻ സീരീസായി ലഭിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അപ്പോൾ നമ്മൾ അതനുസരിച്ച് വിപുലീകരിക്കണം ഒരു ഓട് ഫംഗ്ഷൻ ഒരു ഓട് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു ഈവൻ ഫംഗ്ഷൻ ആയി നമ്മൾ അത് വിപുലീകരിക്കണം അതിനാൽ എന്തായാലും അടുത്ത ലെക്ചറിൽ നമ്മൾ അത് ചർച്ച ചെയ്യും അതിനാൽ ഇവിടെ ഫോറിയർ സീരീസ് നിർണ്ണയിക്കുക എന്നതാണ് ലക്ഷ്യം ഉദാഹരണത്തിന് ഈ ഫംഗ്ഷനായി ഇത് നമ്മൾ കണ്ടതുപോലെ ഒരു ഓട് ഫംഗ്ഷനാണ് അതിനാൽ എല്ലാം 𝑎n′𝑠 0 ആകും 𝑏n ന് ഈ ഫോർമുല 2𝐿0Lf sin nπxL dx ഉപയോഗിക്കണം L എന്നത് ഇവിടെ 2 ആണ് അതിനാൽ നമ്മൾ ക്ക് 2202x sin nπx2 dx ഉണ്ട് ഇത് ഭാഗങ്ങളായി ഇന്റഗ്രേറ്റ് ചെയ്ത് നമുക്ക് ഇത് നേടാം നമുക്ക് 𝑏n ലഘൂകരിക്കാം - 4𝑛𝜋 cos 𝑛𝜋 cos 𝑛𝜋 −1n ആണെങ്കിൽ അതിനാൽ ഇപ്പോൾ നമ്മൾ ഫോറിയർ സീരീസ് എഴുതുന്നു നമ്മൾ 𝑥 ന്റെ ഫൊറിയർ സീരീസ് എഴുതിയാൽ ഇതിന് സൈൻ പദങ്ങൾ മാത്രമേ ഉണ്ടാകൂ കൂടാതെ ഈ കേസിൽ നമ്മൾ ഈ 𝑓𝑥 𝑥 ഫംഗ്ഷന്റെ ഫോറിയർ സീരീസ് എഴുതിയിട്ടുണ്ട് തന്നിരിക്കുന്ന ഇന്റർവെൽ ഫംഗ്ഷൻ ഒരു ഓട് പ്രവർത്തനമായിരുന്നു അടുത്ത ലെക്ചറിന്റെ വിഷയം ഹാഫ് റേഞ്ച് സൈൻ കോസൈൻ സീരീസ് ആണ് അതിനാൽ സൈൻ ഫംഗ്ഷന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ കൊസൈൻ ഫംഗ്ഷനുകളുടെ അടിസ്ഥാനത്തിൽ തന്നിരിക്കുന്ന ഫംഗ്ഷൻ പ്രകടിപ്പിക്കാൻ നമ്മൾ ലക്ഷ്യമിടുന്നു ഈ ലെക്ചറിൽ നമ്മൾ സംസാരിക്കുന്നത് ഫോറിയർ സീരീസ്നെക്കുറിച്ചാണ് എന്നിരുന്നാലും ഫംഗ്ഷൻ ഒരു ഓട് ഫംഗ്ഷനാണെങ്കിൽ യാന്ത്രികമായി നമുക്ക് സൈൻ സീരീസ് ലഭിക്കുന്നു ഫംഗ്ഷൻ ഒരു ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ യാന്ത്രികമായി നമുക്ക് കൊസൈൻ സീരീസ് ലഭിക്കുന്നു പക്ഷേ അടുത്ത ലെക്ചറിൽ ഫംഗ്ഷൻ ഈവൻ അല്ലെങ്കിൽ ഓട് പ്രവർത്തനമായി വിപുലീകരിച്ച് നമ്മൾ കൊസൈൻ സീരീസ് അല്ലെങ്കിൽ സൈൻ സീരീസ് ലക്ഷ്യമിടുന്നു അതിനാൽ ഇതാണ് സൈൻ സീരീസ് ഈ പ്രഭാഷണം തയ്യാറാക്കാൻ നമ്മൾ ഈ റഫറൻസുകൾ ഇവിടെ ഉപയോഗിച്ചു അതിനാൽ വീണ്ടും സമാപിക്കാൻ 𝑓 ഒരു ഈവൻ ഫംഗ്ഷനാണെങ്കിൽ ഫൊറിയർ സീരീസിന്റെ 𝑎02 n1an cos nπxL ആയി കണക്കാക്കാൻ കഴിയുന്ന ലളിതമായ പതിപ്പാണ് നമ്മൾക്കുള്ളത് ഈ ഫോർമുല പ്രകാരം 2𝐿0Lf cos nπx L dx കൂടാതെ 𝑓 ഒരു ഈവൻ ഫംഗ്ഷനാണെങ്കിൽ ഇത് ഇവിടെ ഓട് ഫംഗ്ഷനാണെങ്കിൽ നമുക്ക് സൈൻ സീരീസ് മാത്രമേ ലഭിക്കൂ n1bn sin nπxL അതിനാൽ ഈവൻ പ്രവർത്തനത്തിന് നമുക്ക് കൊസൈൻ സീരീസ് ലഭിക്കും ഓട് പ്രവർത്തനത്തിന് നമുക്ക് സൈൻ സീരീസ് ലഭിക്കും ഈ ഫോർമുല 2𝐿0Lf sin nπx L dx അടുത്ത ലെക്ചറിൽ ഫോറിയർ സൈൻ അല്ലെങ്കിൽ കൊസൈൻ സീരീസ് എങ്ങനെ എഴുതാം എന്ന് നമ്മൾ കാണും അതിനാൽ അവിടെ നമ്മൾ ഒരു പ്രത്യേക സീരീസ് ലക്ഷ്യമിടും ഉദാഹരണത്തിന് ഈ ലെക്ചറിൽ നമ്മൾ ഇതിനകം നൽകിയ ഒരു ഫംഗ്ഷന്റെ ഫോറിയർ സീരീസ് നമ്മൾ എഴുതുകയില്ല ഫംഗ്ഷൻ ഒരു ഈവൻ അല്ലെങ്കിൽ ഓട് ഫംഗ്ഷനാണെങ്കിൽ ഫോറിയർ സീരീസ് വളരെ ലളിതമായ രൂപമാണ് എടുക്കുന്നതെന്ന് നമ്മൾ നിരീക്ഷിച്ചു അതിനാൽ ഈ പ്രഭാഷണത്തിന് അത്രമാത്രം നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് ഞാൻ നന്ദി പറയുന്നു